ലോജിസ്റ്റിക് റിഗ്രഷൻ കഴിഞ്ഞ ലെക്ച്ചറിൽ നമ്മൾ തുടങ്ങിവച്ച ലോജിസ്റ്റിക് റിഗ്രഷനെക്കുറിച്ചുള്ള ലെക്ച്ചർ നമുക്ക് തുടരാം കഴിഞ്ഞ ലെക്ച്ചർ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റിയെ സിഗ്മോയ്ഡൽ ഫംഗ്ഷനായി ഒരു മാതൃകയാക്കി നമ്മൾ ഉപയോഗിച്ച സിഗ്മോയ്ഡൽ ഫംഗ്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നു ഇതാണ് നിങ്ങളുടെ ഹൈപ്പർപ്ലെയ്ൻ സമവാക്യം കൂടാതെ n ഡയമെൻഷനിൽ ഈ അളവ് ഒരു സ്കലാർ ആണ് കാരണം നിങ്ങൾക്ക് X ൽ n ഘടകങ്ങളും β1 ൽ n ഘടകങ്ങളും ഉണ്ട് ഇത് β0 β11 x1 β12 x2 പോലെയും β1n xn പോലെയും മാറുന്നു അതിനാൽ ഇതൊരു സ്കലാർ ആണ് ഈ അളവ് വളരെ വലിയ നെഗറ്റീവ് സംഖ്യയാണെങ്കിൽ പ്രോബബിലിറ്റി 0 ആണെന്നും ഈ അളവ് വളരെ വലിയ പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ പ്രോബബിലിറ്റി 1 ആണെന്നും നമ്മൾ കണ്ടു കൂടാതെ 0 5 ലെ പ്രോബബിലിറ്റിയുടെ ട്രാന്സിഷൻ ഓർക്കുക നിങ്ങൾ ഇത് എപ്പോഴും ക്ലാസ് 1 ലെ വീക്ഷണകോണിൽ നിന്ന് നോക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ നിങ്ങൾക്ക് ക്ലാസ് 1 ന് ഉയർന്ന പ്രോബബിലിറ്റിയും ക്ലാസ് 0 എന്നത് ഒരു റോ പ്രോബ് ലോ പ്രോബബിലിറ്റി കെയ്സും ആണെങ്കിൽ നമ്മൾ മുമ്പ് വിവരിച്ച ഒരു ത്രെഷോൾഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒരു ത്രെഷോൾഡ് ഉപയോഗിച്ച് ഇത് ബൈനറി ഔട്ട്പുട്ടാക്കി മാറ്റാം അതിനാൽ നിങ്ങൾ 0 5 ന്റെ ത്രെഷോൾഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റികൾ 0 1 എന്നിവയിൽ നിന്ന് പോകുന്നു β0 β1 X 0 ആകുമ്പോൾ p of X 0 5 ആയി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക 1 തുല്യമായ 0 അത് 1 ന്റെ 2 ന് തുല്യമാണ് കാരണം p of X അപ്പോൾ e ആകും 0 നെ 1 കൊണ്ട് ഹരിച്ചാൽ തുല്യമായ 0 1 by 2 ന് തുല്യമാണ് ഈ സമവാക്യം ഹൈപ്പർപ്ലെയിനിന്റെ സമവാക്യമാണ് എന്ന രസകരമായ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക അതിനാൽ എനിക്ക് ഇതുപോലുള്ള ഡാറ്റയും ഇതുപോലുള്ള ഡാറ്റയും ഉണ്ടെങ്കിൽ ഈ വരിയിലെ ഏതെങ്കിലും പോയിന്റിൽ ഞാൻ ഈ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി 0 5 പോയിന്റിന് തുല്യമാണ് ഈ 2 d കേസിലോ ഹൈപ്പർപ്ലെയിനിലോ ഈ ലൈനിലെ ഏത് പോയിന്റും n ഡൈമൻഷണൽ കേസിൽ ക്ലാസ് 0 അല്ലെങ്കിൽ ക്ലാസ് 1 ൽ ഉൾപ്പെടാനുള്ള തുല്യ പ്രോബബിലിറ്റി ഉണ്ടായിരിക്കും അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനെ അർത്ഥവത്താക്കുന്നു അതിനാൽ ഈ മോഡലിനെ ലോജിറ്റ് മോഡൽ എന്ന് വിളിക്കുന്നു ഇത് മനസ്സിലാക്കാൻ നമുക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം എടുക്കാം അതിനാൽ നമുക്ക് ഡാറ്റ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ഇവിടെ നമുക്ക് ക്ലാസ് 0 നുള്ള ഡാറ്റയും ക്ലാസ് 1 നുള്ള ഡാറ്റയും ഉണ്ട് ഇത് ഒരു 2 ഡൈമൻഷണൽ പ്രശ്നമാണ് അതിനാൽ ഹൈപ്പർപ്ലെയ്ൻ ഒരു ലൈൻ ആകാൻ പോകുന്നു അതിനാൽ ഒരു ലൈൻ ഇതിനെ വേർതിരിക്കും ഇത്തരത്തിലുള്ള ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലങ്ങളുടെ ഒരു സാധാരണ സാഹചര്യത്തിൽ ഇതിനെ സൂപ്പർവൈസ്ഡ് ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലം എന്ന് വിളിക്കുന്നു ഈ ഡാറ്റയെല്ലാം ലേബൽ ചെയ്തിരിക്കുന്നതിനാലാണ് ഇതിനെ സൂപ്പർവൈസ്ഡ് ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലം എന്ന് വിളിക്കുന്നത് അതിനാൽ ഈ ഡാറ്റയെല്ലാം ക്ലാസ് 0 ൽ നിന്നാണ് വരുന്നതെന്നും ഈ ഡാറ്റയെല്ലാം ക്ലാസ് 1 ൽ നിന്നാണെന്നും എനിക്കറിയാം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്ലാസ് 0 നെ എന്ത് വിളിക്കണം ക്ലാസ് 1 നെ എന്ത് വിളിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മേൽനോട്ടം വഹിക്കുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണയായി നിങ്ങൾക്ക് ഉണ്ടാകും തുടർന്ന് നിങ്ങൾക്ക് പുതിയ ഡാറ്റ നൽകും അതിനെ ടെസ്റ്റ് ഡാറ്റ എന്ന് വിളിക്കുന്നു തുടർന്ന് ചോദ്യം ഈ ടെസ്റ്റ് ഡാറ്റ ഏത് ക്ലാസിൽ പെടുന്നു എന്നതാണ് അതിനാൽ ഈ ഉദാഹരണത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലാസ് 0 അല്ലെങ്കിൽ ക്ലാസ് 1 ആണ് അത്തരം പ്രോബ്ലെംസ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഓർമ്മിക്കുക ഈ കോഴ്സിന്റെ തുടക്കത്തിൽ ഞാൻ ഫ്രോഡ് കണ്ടെത്തലിനെയും മറ്റും കുറിച്ച് സംസാരിച്ചത് ഓർക്കുക നിങ്ങൾക്ക് ഫ്രോഡിന്റെ ധാരാളം രേഖകൾ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗവും ഫ്രോഡുലന്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിന്റെ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ചില ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് വിവരിക്കാം ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡ് ചെയ്ത ദിവസത്തിന്റെ സമയം ക്രെഡിറ്റ് കാർഡ് ട്രാൻസ്ഫർ ചെയ്ത വ്യക്തി താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം വ്യക്തി താമസിക്കുന്ന സ്ഥലത്ത് വച്ച് ചെയ്തു കൂടാതെ മറ്റ് പല ആട്രിബ്യൂട്ടുകളും അതിനാൽ അവയാണ് ആട്രിബ്യൂട്ടുകളെങ്കിൽ നിരവധി ആട്രിബ്യുട്ടുകൾ ഉണ്ടെന്ന് പറയാം ക്രെഡിറ്റ് കാർഡുകളുടെ സാധാരണ ഉപയോഗത്തിന് നിങ്ങൾക്ക് ധാരാളം രേഖകളും ക്രെഡിറ്റ് കാർഡുകളുടെ ഫ്രോഡുലന്റ് ആയ ഉപയോഗത്തിനുള്ള ചില രേഖകളും നിങ്ങൾക്ക് ഉണ്ട് തുടർന്ന് ആരംഭിക്കുന്ന ഒരു പുതിയ ട്രാന്സാക്ഷന് ആട്രിബ്യൂട്ടുകൾ നൽകുന്ന ഒരു ക്ലാസിഫയർ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയും ഈ ഇടപാട് ഫ്രോഡുലന്റ് ആയിരിക്കാനുള്ള സാധ്യത എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും അതിനാൽ അതേ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള മറ്റൊരു മാർഗമാണിത് എന്നിരുന്നാലും ഈ ഉദാഹരണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ഈ കോളം പൂജ്യങ്ങളും വണ്ണുകളും കൊണ്ട് പൂരിപ്പിക്കുക എന്നതാണ് ഞാൻ ഒരു നിരയിൽ 0 കൊണ്ട് ഒരു കോളം പൂരിപ്പിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഈ ഡാറ്റ ക്ലാസ് 0 ൽ ഉള്ളതാണ് ഞാൻ അത് 1 കൊണ്ട് പൂരിപ്പിക്കുകയാണെങ്കിൽ ഇത് ക്ലാസ് 1 ന്റേതാണെന്നും മറ്റും പറയാം ക്ലാസുകൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതിനാൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതാണ് അതിനാൽ ഇത് വളരെ ലളിതമായ ഒരു പ്രശ്നമായാണ് ഞാൻ കാണുന്നത് നമ്മൾ കണ്ട അവസാന പട്ടികയിൽ ഇതേ ഡാറ്റ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ക്ലാസിഫയർ വേണമെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ചേണ്ടിവരും അതിനാൽ ഈ പ്രോബ്ലം രേഖീയമായി ക്ലാസ്സിഫൈ ചെയ്യാവുന്നതാണ് അതിനാൽ അത് ചെയ്യുന്ന ഒരു ലൈൻ നിങ്ങൾക്ക് കൊണ്ടുവരാം ഈ പ്രോബ്ലം പരിഹരിക്കാൻ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ നിങ്ങൾ ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ പരാമീറ്റർ വാല്യൂസ് ഇവയാണെന്ന് മാറുന്നു ഈ പാരാമീറ്റർ വാല്യൂസ് എങ്ങനെ ലഭിച്ചു ഈ പാരാമീറ്റർ വാല്യൂസ് ഒപ്റ്റിമൈസേഷൻ ഫോർമുലേഷനിലൂടെ സംരക്ഷിക്കപ്പെടുന്നു ഇവിടെ 1 എന്നത് β0 β11 β12 എന്നിവയെ ഡിസിഷൻ വേരിയബിളുകളായി ലോഗ് സാധ്യത വർദ്ധിപ്പിക്കുന്നു നമ്മൾ ഇവിടെ കാണുന്നതുപോലെ 3 ഡിസിഷൻ വേരിയബിളുകൾ ഉണ്ട് കാരണം ഇതൊരു ഡൈമൻഷണൽ പ്രോബ്ലമായിരുന്നു അതിനാൽ ഓരോ അളവിനും 1 ഗുണകവും തുടർന്ന്₂ 1 സ്ഥിരാങ്കവും ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സിഗ്മോയിഡിന് മുമ്പ് എഴുതിയിരിക്കുന്നതുപോലെ p of X നുള്ള നിങ്ങളുടെ പദപ്രയോഗം നിങ്ങൾക്കുണ്ട് അതിനാൽ ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിഗ്മോയ്ഡൽ ഫംഗ്ഷനാണ് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഡാറ്റ ലഭിക്കുമ്പോഴെല്ലാം നമുക്ക് 1 3 എന്ന് പറയാം നിങ്ങൾ ഇത് ഈ സിഗ്മോയ്ഡൽ ഫംഗ്ഷനിലേക്ക് പ്ലഗ് ചെയ്യുക നിങ്ങൾക്ക് ഒരു പ്രോബബിലിറ്റി ലഭിക്കും നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പ്രോബബിലിറ്റി ലഭിക്കുന്നതാണ് ആദ്യത്തെ ഡാറ്റ പോയിന്റ് എന്ന് നമുക്ക് പറയാം അതിനാൽ നിങ്ങൾ 0 5 ന്റെ ത്രെഷോൾഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് 0 5 ൽ താഴെയുള്ളത് ക്ലാസ് 0 ലും 0 5 ൽ കൂടുതലുള്ളതെല്ലാം ക്ലാസ് 1 ലും ഉൾപ്പെടും എന്നാണ് അതിനാൽ ഇത് 0 ആണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും ക്ലാസ് 0 ക്ലാസ് 1 ക്ലാസ് 1 ക്ലാസ് 0 ക്ലാസ് 0 ക്ലാസ് 1 ക്ലാസ് 0 ക്ലാസ് 0 ക്ലാസ് 0 അതിനാൽ മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കോളം പൂരിപ്പിക്കുക എന്നതായിരുന്നു നമ്മൾ ഇവിടെ ആഗ്രഹിച്ചത് നിങ്ങൾ ഒരു ലൈനിലൂടെ പോയാൽ പ്രത്യേക സാമ്പിൾ ഏത് ക്ലാസിൽ പെട്ടതാണെന്ന് പറയുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ ടെസ്റ്റ് കേസുകൾ തരംതിരിക്കുക എന്നതാണ് നിങ്ങൾ ഈ പാരാമീറ്ററുകൾ തിരിച്ചറിയുമ്പോൾ ക്ലാസിഫയർ കണ്ടില്ല അതിനാൽ ഈ പാരാമീറ്ററുകൾ തിരിച്ചറിയുന്ന പ്രക്രിയയെ സാധാരണയായി മെഷീൻ ലേണിംഗ് അൽഗോരിതം ട്രെയിനിങ് എന്ന് വിളിക്കുന്നു പിന്നീട് ടെസ്റ്റ് കേസുകൾ പരിഹരിക്കാൻ നിങ്ങൾ ക്ലാസിഫയറിനെ പരിശീലിപ്പിക്കുകയാണ് ഈ പാരാമീറ്ററുകൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡാറ്റയെ ട്രെയിനിങ് ഡാറ്റ എന്നും ഇതിനെ നിങ്ങൾ ഒരു ക്ലാസിഫയർ പരീക്ഷിക്കുന്ന ഡേറ്റയെ ടെസ്റ്റ് ഡാറ്റ എന്നും വിളിക്കുന്നു അതിനാൽ സാധാരണയായി നിങ്ങൾ ചെയ്യുന്നത് ക്ലാസ് ലേബലുകളുള്ള ധാരാളം ഡാറ്റ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ ഇത് പരിശീലന ഡാറ്റയായും ടെസ്റ്റ് ഡാറ്റയായും വിഭജിക്കുക എന്നതാണ് ഒരാൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം പരിശീലനവും ടെസ്റ്റ് ഡാറ്റയുമായി ഇതിനെ വിഭജിക്കാനുള്ള കാരണം ഇനിപ്പറയുന്നതാണ് ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ചില ഡാറ്റയെ അടിസ്ഥാനമാക്കി നമ്മൾ ഒരു ക്ലാസിഫയർ നിർമ്മിച്ചു തുടർന്ന് മറ്റ് ചില ഡാറ്റയിൽ നമ്മൾ അത് പരീക്ഷിച്ചു എന്നാൽ ഈ ഫലങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ നമുക്ക് മാർഗമില്ല അതിനാൽ നമ്മൾ ഫലങ്ങൾ അതേപടി എടുക്കണം അതിനാൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ക്ലാസിഫയർ നിർമ്മിക്കുന്നതിന് ഡാറ്റയുടെ കുറച്ച് ഭാഗം ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് തുടർന്ന് പരിശോധനയ്ക്കായി ഡാറ്റയുടെ കുറച്ച് ഭാഗം നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് നിലനിർത്താനുള്ള കാരണം ഇതിലെ ലേബലുകൾ ഇതിനകം തന്നെ അറിയാവുന്നതിനാലാണ് അതിനാൽ ഞാൻ ഡാറ്റയുടെ ഈ ഭാഗം ക്ലാസിഫയറിന് നൽകിയാൽ ക്ലാസിഫയർ ചില ക്ലാസ്സിഫിക്കേഷനുമായി വരും ഇപ്പോൾ ആ ഡാറ്റ പോയിന്റുകൾക്കായി ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള ലേബലുകളുമായി താരതമ്യം ചെയ്യാം അതിനാൽ നിങ്ങളുടെ ക്ലാസിഫയർ എത്രത്തോളം മികച്ചതാണെന്ന് പരിശോധിച്ചുറപ്പിക്കുന്നതിൽ നിന്ന് ഇത് ട്രെയിനിങ് ഡേറ്റ ആയും ടെസ്റ്റിംഗ് ഡേറ്റയായും വിഭജിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് ട്രെയിനിങ്ങിന് നിങ്ങൾ ഡാറ്റയുടെ എത്ര അനുപാതമാണ് ഉപയോഗിക്കുന്നത് ടെസ്റ്റിംഗിനായി ഡാറ്റയുടെ എത്ര അനുപാതമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടതാണ് കൂടാതെ ഈ മൂല്യനിർണ്ണയം നടത്തുന്നതിന് നിരവധി വ്യത്യസ്ത മാർഗങ്ങളുണ്ട് അതിലൊന്ന് ഇതിനെ ടെസ്റ്റ് ഡാറ്റ ഉപയോഗിച്ച് വിളിക്കുക എന്നതാണ് അതുപോലെ തന്നെ K ഫോൾഡ് വാലിഡേഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകളുണ്ട് അതിനാൽ ഡാറ്റയെ ട്രെയിനിലേക്കും ടെസ്റ്റിലേക്കും വിഭജിക്കാനും നിങ്ങളുടെ ക്ലാസിഫയർ എത്രത്തോളം മികച്ചതാണെന്ന് പരിശോധിക്കാനും നിരവധി മാർഗങ്ങളുണ്ട് എന്നിരുന്നാലും ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഒരാൾ എപ്പോഴും ഡാറ്റ നോക്കുകയും ഡാറ്റയെ ട്രൈനിങ്ങിലേക്കും ടെസ്റ്റിലേക്കും വിഭജിക്കണമെന്നും അതുവഴി നിങ്ങൾക്ക് സ്ഥിരമായ ഫലങ്ങൾ ലഭിക്കും എന്നതുമാണ് അതിനാൽ ഈ എക്സർസൈസിൽ ആരെങ്കിലും വീണ്ടും ഈ പോയിന്റുകൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു അതിനാൽ ഇവയെല്ലാം ക്ലാസ് 1 ഡാറ്റാ പോയിന്റുകളാണ് ഇവ ക്ലാസ് 0 ഡാറ്റ പോയിന്റുകളാണ് ഇത് നിങ്ങളുടെ ഹൈപ്പർപ്ലെയ്ൻ ആണ് ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ നമ്മൾ കണ്ടെത്തി ഈ ക്ലാസിഫയർ ഉപയോഗിച്ച് നമ്മൾ പരീക്ഷിച്ച ടെസ്റ്റ് പോയിന്റുകൾ ഇവയാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ എല്ലാം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് 2 ഡൈമെൻഷണൽ അളവുകളിൽ വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയും എന്നിരുന്നാലും ഒന്നിലധികം അളവുകൾ ഉള്ളപ്പോൾ ഡാറ്റാ പോയിന്റ് എവിടെയാണെന്നും മറ്റും ദൃശ്യവൽക്കരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും ലോജിസ്റ്റിക് റിഗ്രഷൻ എന്തുചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഇത് നിങ്ങൾക്ക് ഒരു ആശയം നൽകുന്നു ഇത് ഇവിടെ ഒരു ലൈൻ ക്ലാസ്സിഫിക്കേഷൻ നടത്തുന്നു എന്നിരുന്നാലും ഈ ഹൈപ്പർപ്ലെയിനിൽ നിന്നുള്ള ദൂരത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക ക്ലാസിലെ ഡാറ്റയുടെ ഒരു പ്രോബബിലിറ്റിയും നമ്മൾ നിയോഗിക്കുന്നു ഇപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷനിൽ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആശയം കൂടിയുണ്ട് ഈ ആശയത്തെയാണ് റെഗുലറൈസേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആശയം താഴെ പറയുന്നതാണ് പൊതുവായ ലോജിസ്റ്റിക് റിഗ്രഷനിൽ നമ്മൾ ഉപയോഗിച്ച ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനെയാണ് ഞങ്ങൾ ലോഗ് സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് ഇവിടെ θ വീണ്ടും ഹൈപ്പർപ്ലെയിനിലെ സ്ഥിരാങ്കങ്ങളെയോ അല്ലെങ്കിൽ ഡിസിഷൻ വേരിയബിളുകളെയോ കുറിച്ച പറയുന്നു മുമ്പത്തെ ലെക്ച്ചറിലും ഈ ലെക്ച്ചറിന്റെ തുടക്കത്തിലും നമ്മൾ കണ്ട സമവാക്യത്തിന്റെ രൂപമാണിത് ഇപ്പോൾ നിങ്ങളുടെ പ്രോബ്ലത്തിലോ n സവിശേഷതകളിലോ n ആട്രിബ്യൂട്ടുകളിലോ n വേരിയബിളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്ന ഡിസിഷൻ വേരിയബിളുകളുടെ എണ്ണം n 1 ആണ് അതിനാൽ ഓരോ വേരിയബിളിനും 1 സ്ഥിരാങ്കവും ഈ n ഉം ഉള്ളപ്പോൾ ഇത് വളരെ വലുതാണെങ്കിൽ സ്ഥിരാങ്കവും ഒരു വലിയ സംഖ്യ വേരിയബിളുകളും ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലിന് ഡേറ്റയെ മറികടക്കാൻ കഴിയും കാരണം നിങ്ങൾക്ക് ഡാറ്റയെ മറികടക്കാൻ കഴിയുന്ന നിരവധി പാരാമീറ്ററുകൾ ഉണ്ട് അതിനാൽ ഇത് തടയാൻ ഞങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ n 1 ഡിസിഷൻ വേരിയബിളുകൾ ഉപയോഗിക്കാൻ ഉണ്ടെങ്കിലും ഈ ഡിസിഷൻ വേരിയബിളുകൾ മിതമായി ഉപയോഗിക്കണം അതിനാൽ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലത്തിനായി നിങ്ങൾ ഒരു വേരിയബിളിനായി ഒരു കോഫിഫിഷ്യന്റ് ഉപയോഗിക്കുമ്പോഴെല്ലാം ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലത്തിൽ ആ വേരിയബിൾ ഉപയോഗിക്കുന്നതിനുള്ള പരമാവധി മൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 2 വേരിയബിളുകൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് β0 β11 x1 β12 x2 എന്നാണ് ഈ ക്ലാസിഫയറിന് ഞാൻ രണ്ടും ഉപയോഗിക്കുന്നു നമുക്ക് വേരിയബിളുകൾ x1 x2 എന്നിവ പ്രധാനമാണെന്ന് പറയാം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സൊല്യൂഷനോ സൊല്യൂഷന്റെ എഫിഷ്യന്സിക്കോ അവ ശരിക്കും സംഭാവന ചെയ്താൽ മാത്രമേ ഞാൻ ഇവ ഉപയോഗിക്കൂ എന്ന് ഉറപ്പാക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ പദത്തിനും നിങ്ങൾക്ക് പകരം എന്തെങ്കിലും ലഭിക്കണമെന്ന് ഒരാൾ പറഞ്ഞേക്കാം അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു പദം ഉപയോഗിക്കുകയും പകരം ഒന്നും ലഭിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ ഈ പദത്തിന് പിഴ ചുമത്താൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ കോഎഫിഷ്യന്റ്കൾക്ക് ഞാൻ പിഴ ചുമത്താൻ ആഗ്രഹിക്കുന്നു ഇതിനെയാണ് സാധാരണ റെഗുലറൈസേഷൻ എന്ന് പറയുന്നത് അതിനാൽ റെഗുലറൈസേഷൻ സങ്കീർണ്ണമായ മോഡലുകൾ നിർമ്മിക്കുന്നത് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ സങ്കീർണ്ണമല്ലാത്ത മോഡലുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു അതിനാൽ നിങ്ങളുടെ ഓവർഫിറ്ററിംഗ് ഇഫക്റ്റുകൾ കുറയ്ക്കാൻ കഴിയും അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ പെനലൈസ് ചെയ്യും അതിനാൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ലോഗ് സാധ്യത കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് എന്നത് ശ്രദ്ധിക്കുക അതിനാൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒബ്ജക്റ്റീവിലേക്ക് മറ്റൊരു പദം ചേർക്കുകയാണ് λ യെ റെഗുലറൈസേഷൻ പാരാമീറ്റർ എന്നും ഈ h θ എന്നത് ചില റെഗുലറൈസേഷൻ ഫംഗ്ഷനുമാണ് അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് θ യുടെ മൂല്യങ്ങൾ വളരെ വലുതായിരിക്കണമെന്ന് കരുതി ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ വലുതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പെനാൽറ്റി കൂടുതലാണ് അല്ലെങ്കിൽ ഞാൻ ഒരു വേരിയബിൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉടൻ തന്നെ ഒരു പെനാൽറ്റി കിക്ക് ഇൻ ചെയ്യുന്നു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഈ കാലയളവിലെ മെച്ചപ്പെടുത്തൽ അനുസരിച്ച് ഈ പെനാൽറ്റി നിശ്ചയിക്കണം അതിനാൽ റെഗുലറൈസേഷന് പിന്നിലെ അടിസ്ഥാന ആശയം അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഫംഗ്ഷൻ θT θ ആയി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ പല തരത്തിലാകാം തുടർന്ന് ഇതിനെ L2 ടൈപ്പ് റെഗുലറൈസേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ മുമ്പത്തെ ഉദാഹരണത്തിൽ ഇത് θ β0 β11β12 T β0 β11β12 ആയി മാറും അതിനാൽ ഈ സാഹചര്യത്തിൽ h θ β02 β112β122 ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റ് തരത്തിലുള്ള റെഗുലറൈസേഷൻ ഉണ്ട് നിങ്ങൾക്ക് L2 ടൈപ്പ് അല്ലെങ്കിൽ L2 മാനദണ്ഡം എന്ന് വിളിക്കുന്നത് ഉപയോഗിക്കാം നിങ്ങൾക്ക് L ടൈപ്പ് അല്ലെങ്കിൽ ഒരു L1 മാനദണ്ഡം എന്ന് വിളിക്കുന്ന എന്തെങ്കിലും ഉപയോഗിക്കാം ഈ കോഎഫിഷിയെന്റിന്റെ വലിയ മൂല്യം ഇത് വർദ്ധിപ്പിക്കുന്നു അത് റെഗുലറൈസേഷൻ ശക്തിയാണ് അതായത് വേരിയബിളുകളുടെ ഉപയോഗത്തിന് നിങ്ങൾ കൂടുതൽ പിഴ ചുമത്തുന്നു കൂടാതെ ഒരു പൊതു നിയമം എന്തെന്നാൽ റെഗുലറൈസേഷൻ മോഡൽ ടെസ്റ്റ് ഡാറ്റയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു എന്നതാണ് കാരണം നിങ്ങൾ ട്രെയിൻഡ് ഡാറ്റയിൽ ഓവർഫിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണിത് അതിനാൽ ലോജിസ്റ്റിക് റിഗ്രഷന്റെ ഭാഗം ഇതോടെ അവസാനിക്കുന്നു ഞങ്ങൾ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണ കേസ് പഠനം കാണിക്കാൻ പോകുന്നു അവിടെ ഒരു പരിഹാരത്തിനായി ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ഞങ്ങൾ ഈ കേസ് പഠനം നടത്തുന്നതിന് മുമ്പ് ക്ലാസിഫിക്കേഷനും ക്ലസ്റ്ററിംഗും സംബന്ധിച്ച എല്ലാ കേസ് പഠനങ്ങളും r കോഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് നോക്കുന്നത് ഉൾപ്പെടുന്നു ഞാൻ r കോഡിൽ നിന്ന് ഒരു സാധാരണ ഔട്ട്പുട്ട് എടുക്കാൻ പോകുന്നു ഇത് നിരവധി ഫലങ്ങൾ കാണിക്കും ഇവയെ ക്ലാസിഫയറിന്റെ പെർഫോമൻസ് മെഷേഴ്സ് എന്ന് വിളിക്കുന്നു ഈ പെർഫോമൻസ് മെഷേഴ്സ് എന്താണെന്നും ഏതെങ്കിലും കേസ് പഠനത്തിനായി നിങ്ങൾ ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകഴിഞ്ഞാൽ ഈ പെർഫോമൻസ് മെഷേഴ്സ് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നും ഞാൻ വിവരിക്കാൻ പോകുന്നു അതിനാൽ അടുത്ത ലെക്ച്ചറിൽ നമ്മൾ ഈ പെർഫോമൻസ് മെഷേഴ്സിനെക്കുറിച്ച് സംസാരിക്കും തുടർന്ന് ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിച്ചുള്ള ഒരു കേസ് പഠനത്തെക്കുറിച്ചുള്ള ലെക്ച്ചറായിരിക്കും അത് ഈ ലെക്ച്ചർ ശ്രദ്ധിച്ചതിന് നന്ദി അടുത്ത ലെക്ച്ചറിൽ നമുക്ക് കാണാം